ഈ മൊഡ്യൂളിലേക്ക് സ്വാഗതം ഇത് നമ്മൾ മോസ്ഫെറ്റ് പഠിച്ച അവസാന പ്രഭാഷണത്തിന്റെ തുടർച്ചയാണ് പ്രോസസ് ഫ്ലോ ഉപയോഗിച്ച് MOSFET എങ്ങനെ കെട്ടിച്ചമയ്ക്കാമെന്ന് ഞങ്ങൾ കണ്ടു എൻഹാൻസ്മെൻറ് മോസ്ഫെറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമ്മൾ കണ്ടു ചില ട്രാൻസ്ഫർ സവിശേഷതകളും നമ്മൾ കണ്ടു ഈ മൊഡ്യൂളിൽ നമ്മൾ ഡിപ്ലിഷൻ തരം മോസ്ഫെറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും എൻഹാൻസ്മെൻറ് തരം മോസ്ഫെറ്റിന്റെ കാര്യത്തിൽ സോഴ്സിനും ഡ്രെയിനിനുമിടയിൽ ചാനലുകൾ ഉണ്ടായിരുന്നില്ല ഇത് സോഴ്സും ഇത് ഡ്രെയിനും ആകുന്നു പക്ഷേ ഇവിടെ ചാനൽ ഇല്ല അതിനാൽ ഉറവിടവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നെഗറ്റീവ് ഗേറ്റ് വോൾട്ടേജ് പ്രയോഗിക്കുമ്പോൾ ഈ ചാനൽ സൃഷ്ടിക്കാൻ കഴിയും ഗേറ്റ് വോൾട്ടേജ് VGS ഉറവിടവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പോസിറ്റീവ് ആണ് ഗേറ്റിലെ പോസിറ്റീവ് വോൾട്ടേജ് കാരണം ഇലക്ട്രോണുകൾ അടിത്തട്ടിൽ നിന്ന് ആകർഷിക്കപ്പെടുകയും ചാനലിന്റെ രൂപീകരണം ഉണ്ടാവുകയും ചെയ്യും VGS വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ കറണ്ട് VDS മൂല്യം അനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും ഞങ്ങൾ VGS നെ സ്ഥിരമായി നിലനിർത്തിക്കൊണ്ട് VDS വർദ്ധിപ്പിക്കുമ്പോൾ ഇത് ഒരു സാച്ചുറേഷൻ മേഖലയിലെത്തും ഇത് പൂരിതമാകുമ്പോൾ സ്ഥിരമായ വോൾട്ടേജ് അല്ലെങ്കിൽ VDsaturation എത്തും ഇതിനെ പിഞ്ച് ഓഫ് മേഖല എന്നു വിളിക്കുന്നു എന്നിട്ട് നമ്മൾ പെട്ടെന്നു വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വിഡിഎസിന്റെ തുടർച്ചയായ വർദ്ധനവിന് ശേഷം അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യും കൂടാതെ മോസ്ഫെറ്റിന് തകരാറുണ്ടാകാം അതായത് ഒരു ബ്രേക്ക്ഡൌൺ പ്രദേശത്തേക്ക് പ്രവേശിക്കാം അല്ലെങ്കിൽ മോസ്ഫെറ്റിനെ ബാധിക്കുകയും അത് നശിക്കുകയും ചെയ്യാം അതിനാൽ നമ്മൾ ഒരു മൂല്യത്തേക്കാൾ കൂടുതൽ VDS കൂട്ടരുത് ഡ്രെയിൻ കറന്റായ ID ന്റെ ഒഴുക്ക് കാണുന്നതിന് VGS ത്രെഷോൾഡ് വോൾട്ടേജിനേക്കാൾ വലുതോ തുല്യമോ ആയിരിക്കണമെന്നും ഞങ്ങൾ കണ്ടു അതിനാൽ ഈ മൊഡ്യൂളിൽ ഡിപ്ലിഷൻ തരം മോസ്ഫെറ്റ് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം കൂടാതെ നമുക്ക് ഇത് എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്നും നോക്കാം അതിനാൽ നിങ്ങൾ സ്ക്രീൻ കാണുക ഇന്ന് ഡിപ്ലിഷൻ ടൈപ്പ് എൻമോസ് ട്രാൻസിസ്റ്ററിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും അതിന്റെ നിർമ്മാണവും പ്രവർത്തനവും അതുപോലെ ഡ്രെയിൻ ട്രാൻസ്ഫർ സവിശേഷതകളും നമ്മൾ കാണും എൻഹാൻസ്മെൻറ് മോസ്ഫെറ്റിന്റെയും മെച്ചപ്പെടുത്തൽ തരത്തിന്റെയും നിർമ്മാണവും പ്രവർത്തനവും നമ്മൾ കാണും അതിനാൽ ഈ സ്ലൈഡ് സൂക്ഷ്മമായി പരിശോധിക്കുക ഈ പ്രത്യേക കണക്ക് നിങ്ങൾ കാണുകയാണെങ്കിൽ എസ്എസ് സ്ലാഷ് ബി എന്ന ഒരു സബ്സ്റേറ്റ് ഇത് ഇവിടെയുള്ള സോഴ്സുമായി ആന്തരികമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഞങ്ങൾ VDS പ്രയോഗിക്കുന്നു സോഴ്സുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഡ്രെയിൻ കൂടുതൽ പോസിറ്റീവ് ആണ് ഇപ്പോൾ ഈ പ്രത്യേക അവസ്ഥയിൽ ഗേറ്റ് ഉറവിടവുമായി നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു vgs 0 ആണ് ഇപ്പോൾ ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഉറവിടം ഇവിടെയുണ്ട് ഡ്രെയിൻ ഇവിടെയുണ്ട് ഉറവിടത്തിനും ഡ്രെയിനിനുമിടയിൽ ഇതിനകം ചാനൽ നിലവിലുണ്ട് ഇപ്പോൾ അതിനർത്ഥം എന്റെ വിജിഎസ് 0 വോൾട്ട് ആകുമ്പോൾ എന്റെ വിഡിഎസ് എന്താണ് സോഴ്സ് വോൾട്ടേജിൽ നിന്നും ഡ്രെയിൻ വോൾട്ടേജ് കുറച്ചാൽ നമുക്ക് VDS കിട്ടും അതിനാൽ ഞാൻ VDS വർദ്ധിപ്പിക്കുകയാണെങ്കിൽ എന്റെ VD വർദ്ധിക്കുകയും അതിനനുസരിച്ച് എന്റെ ID വർദ്ധിക്കുകയും ചെയ്യും എന്തുകൊണ്ട് ഉറവിടത്തിനും ഡ്രെയിനിനുമിടയിൽ എനിക്ക് ഇതിനകം ഈ ചാനൽ ഉണ്ട് അതിനാൽ പ്രത്യേകിച്ചും VGS 0 ഉള്ളപ്പോൾ VDS വർദ്ധിക്കുമ്പോൾ ഡ്രെയിൻ കറന്റിൽ വർദ്ധനവ് കാണാം VGS 0 ന് തുല്യമാകുമ്പോൾ എൻഹാൻസ്മെൻറ് തരം ആണെങ്കിൽ VDS വർദ്ധിക്കുമ്പോഴും സോഴ്സും ഡ്രെയിനും തമ്മിൽ ചാനൽ ഇല്ലാത്തതിനാൽ ഡ്രെയിൻ കറൻറ് കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല അതിനാൽ ഇപ്പോൾ ഡിപ്ലിഷൻ തരം മോസ്ഫെറ്റ് ആണെങ്കിൽ നമ്മൾ എന്താണ് കാണുന്നത് ഗേറ്റിൽ നിന്ന് സോഴ്സിലേക്ക് വോൾട്ടേജ് പ്രയോഗിക്കാത്തപ്പോൾ വോൾട്ടേജ് 0 ആണ് ഈ സാഹചര്യത്തിൽ ഞങ്ങൾ പ്രയോഗിക്കുമ്പോൾ VDS വർദ്ധിപ്പിക്കുമ്പോൾ അതിനനുസരിച്ച് നിലവിലെ IDയിൽ വർദ്ധനവ് കാണാം അതിനാൽ അത് എന്താണ് അടുത്തത് VDS നോക്കാം ഞാൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വിപരീത പക്ഷപാതം വർദ്ധിച്ചുകൊണ്ടിരിക്കും കുറയുന്നതിന്റെ വീതി വർദ്ധിച്ചുകൊണ്ടിരിക്കും ചാനലുകൾ ഇടുങ്ങിയതായി മാറുകയും ID സ്ഥിരമാവുകയും ചെയ്യും ഞാൻ വിഡിഎസ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തുടർന്ന് ചാനൽ ഇതുപോലെ ഇടുങ്ങിയതായി തുടങ്ങും അത് നിങ്ങൾക്ക് ചിത്രത്തിൽ നിന്ന് കാണാൻ കഴിയും ഇവിടെത്തന്നെ ചാനൽ ഇടുങ്ങിയതിനാൽ എന്ത് സംഭവിക്കും ഡിപ്രീഷൻ റീജിയൻറെ വീതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ബീറ്റാ ഡിപ്രീഷൻ റീജിയൻ ഇങ്ങനെയായിരിക്കും അതിൻറെ വീതി വർദ്ധിക്കുന്നു ഇപ്പോൾ ഡിപ്രീഷൻ പ്രദേശത്തിന്റെ വീതി വർദ്ധിക്കുകയാണെങ്കിൽ അതിനർത്ഥം ചാനൽ ഇടുങ്ങിയതായി മാറുന്നു ചാനൽ ഇടുങ്ങിയതാണെങ്കിൽ എന്റെ നിലവിലെ ID സ്ഥിരമായിരിക്കും ഈ പ്രത്യേക സാഹചര്യത്തിൽ VGS 0 ആയിരിക്കുമ്പോൾ എന്റെ ഡ്രെയിൻ കറന്റായ ഐഡി അതിനെ ഐഡി സാച്ചുറേഷൻ അല്ലെങ്കിൽ ഐഡിഎസ്എസ് എന്ന് വിളിക്കുന്നു എന്നിരുന്നാലും IDSS പരമാവധി കറന്റല്ല എന്നത് ശ്രദ്ധിക്കുക നിങ്ങൾ വിജിഎസ് 0 വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഉയർന്ന കറന്റ് ഉണ്ടാകാം അതിനാൽ ഐഡി സ്ഥിരമായ ഐഡി സാച്ചുറേഷൻ അല്ല അതിനർത്ഥം ഞങ്ങൾക്ക് IDSS ൽ കൂടുതൽ ഉണ്ടാകാൻ കഴിയില്ല അത് പരമാവധി കറന്റല്ല VDS 0 വോൾട്ട് വർദ്ധിപ്പിക്കാൻ ആരംഭിക്കുമ്പോൾ നമുക്ക് IDSS നേക്കാൾ കൂടുതൽ ഉണ്ടായിരിക്കാം ഇത് ഒരു നിബന്ധനയായിരുന്നു ഞങ്ങൾക്ക് വിജിഎസ് 0 വോൾട്ടിന് തുല്യമാകുമ്പോൾ പക്ഷേ ഞാൻ വിജി എസ് 0 വോൾട്ട് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഐഡിഎസ്എസിന്റെ വർദ്ധനവ് ഞാൻ കാണും അല്ലെങ്കിൽ നിലവിലെ ഐഡിയിൽ കുറവ് ഉണ്ടാകും ഇപ്പോൾ നിങ്ങൾ സ്ലൈഡ് കാണുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് കാണുന്നത് വിജിഎസ് 0 ൽ കുറവാണെങ്കിൽ അല്ലെങ്കിൽ വിജിഎസ് 1 വോൾട്ട് എന്ന് പറയാം ഇനി എന്ത് സംഭവിക്കും ഗേറ്റ് നെഗറ്റീവ് ആണ് ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്ജ് ആയതിനാൽ ഇലക്ട്രോണുകൾ പോസ്റ്റുഡൌൺ ചെയ്യും ഗേറ്റ് ടെർമിനലിൽ ഞങ്ങൾ നെഗറ്റീവ് പ്രയോഗിച്ചു അതിനാൽ നെഗറ്റീവ് നെഗറ്റീവ് റിപ്പൽഷന് കാരണമാകും ഈ റിപ്പൽഷൻ ഇലക്ട്രോണുകളെ സബ്സ്ട്രേറ്റലേക്ക് തള്ളിവിടുന്നതിനെ ബാധിക്കും ഒരു സബ്സ്ട്രേറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാം അതിനാൽ ഇലക്ട്രോണുകൾ താഴേക്ക് വരും ഇത് ഇതുപോലെ താഴേക്ക് തള്ളപ്പെടും കൂടാതെ നെഗറ്റീവ് ചാർജ് ഉള്ളതിനാൽ ദ്വാരങ്ങൾക്ക് പോസിറ്റീവ് ചാർജ് ഉണ്ടാകും അതിനാൽ ദ്വാരങ്ങൾ മുകളിലേക്ക് തള്ളപ്പെടും അത് മുകളിലേക്ക് വലിച്ചെടുക്കും ദ്വാരങ്ങൾ മുകളിലേക്ക് വലിച്ചെറിയുന്നത് നിങ്ങൾ കാണുന്നു ഇലക്ട്രോണുകൾ താഴേക്ക് തള്ളപ്പെടും അതിനാൽ ഇത് ഇലക്ട്രോണുകളുടെയും ദ്വാരങ്ങളുടെയും പുനസംയോജനത്തിന് കാരണമാകും എൻ ചാനലിലെ ഇലക്ട്രോൺ കുറയുന്നത് ഐഡി കുറയുന്നതിന് കാരണമാകുന്നു അതിനാൽ എന്റെ വിജിഎസ് 0 ൽ കുറവാണെങ്കിൽ എന്റെ വിജിഎസ് 0 ൽ കുറവാണെങ്കിൽ ഈ പ്രത്യേക അവസ്ഥ എനിക്കുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ചാനലിൽ നിന്നുള്ള എന്റെ ഇലക്ട്രോണുകൾ താഴേക്ക് തള്ളപ്പെടും ദ്വാരങ്ങൾ മുകളിലേക്ക് വലിച്ചെറിയപ്പെടും കൂടാതെ ദ്വാരങ്ങളുടെയും ഇലക്ട്രോണുകളുടെയും പുന omb സംയോജനവും ആത്യന്തികമായി ഞാൻ കാണുന്നത് ചാനലിലെ കുറവും നിലവിലെ ഐഡിയും ഒരേസമയം കുറയും അതിനാൽ നമുക്ക് മറ്റൊരു വ്യവസ്ഥ പരിഗണിക്കാം ഈ സാഹചര്യത്തിലാണ് എന്റെ വിജിഎസ് 0 വോൾട്ട് എന്റെ വിജിഎസ് 0 വോൾട്ട് എങ്കിൽ ഇത് 1 വോൾട്ട് ആണെന്ന് കരുതുക ഗേറ്റ് ടെർമിനലിൽ നിങ്ങൾക്ക് ഇവിടെ പ്ലസ് കാണാം നിങ്ങൾക്ക് സബ്സ്ട്രേറ്റ് ഉണ്ട് അത് നിലവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു കൂടാതെ ഞങ്ങൾക്ക് അറിയാവുന്ന ഉറവിടവുമായി ആന്തരികമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഉറവിടവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇവിടെ ഗേറ്റ് പോസിറ്റീവ് ആണ് അപ്പോൾ ഇലക്ട്രോണുകൾക്ക് എന്ത് സംഭവിക്കും ഇവിടെ സബ്സ്ട്രേറ്റിലുള്ള ഇലക്ട്രോണുകൾ മുകളിലേക്ക് വലിച്ചെടുക്കും നിങ്ങൾക്കെല്ലാവർക്കും കാണാനാകുന്നതുപോലെ n ചാനൽ ഇവിടെയുണ്ട് ഇത് n ചാനലുകൾക്കുള്ളിലെ ഇലക്ട്രോണുകളാണ് ഇത് ഉറവിടത്തിനും ഡ്രെയിനിനുമിടയിൽ ഒരു ചാനൽ സൃഷ്ടിക്കുന്നു ഞങ്ങൾ ഇതിനകം കണ്ടതുപോലെ ഇത് നിങ്ങളുടെ ഓക്സൈഡ് പാളി SiO2 ഗേറ്റ് ഓക്സൈഡിന്റെ നേർത്ത പാളി ഗേറ്റ് ഓക്സൈഡ് എങ്ങനെ വളർത്താം താപ ഓക്സിഡേഷൻ ഉപയോഗിച്ചാണ് നമുക്ക് ഗേറ്റ് ഓക്സൈഡ് വളർത്താൻ കഴിയുന്നത് ഇപ്പോൾ ഞാൻ സബ്സ്ട്രേറ്റുമായി ബന്ധപ്പെട്ട് പോസിറ്റീവ് പ്രയോഗിച്ചാൽ പിന്നെ എന്ത് സംഭവിക്കും ഇലക്ട്രോൺ പി സബ്സ്ട്രേറ്റിൽ നിന്നുള്ള ന്യൂനപക്ഷ വാഹനങ്ങൾ വലിച്ചിടുകയും ചാനലിൽ കൂടുതൽ ഇലക്ട്രോണുകൾ ഉണ്ടാവുകയും ചെയ്യും ചാനലിൽ കൂടുതൽ ഇലക്ട്രോണുകൾ ഉണ്ടാകും അത് ഐഡി അതിവേഗം വർദ്ധിക്കാൻ കാരണമാകും പോസിറ്റീവ് പ്രയോഗിച്ചാൽ ഇലക്ട്രോൺ ആകർഷിക്കപ്പെടുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നെഗറ്റീവ് പ്രയോഗിക്കുക ഇലക്ട്രോൺ താഴേക്ക് തള്ളപ്പെടും ഇലക്ട്രോണുകൾ താഴേക്ക് തള്ളുകയാണെങ്കിൽ ചാനൽ ഇടുങ്ങിയതും എന്റെ ഐഡി കുറയുന്നതും ആയിരിക്കും എന്റെ ഇലക്ട്രോണുകൾ മുകളിലേക്ക് തള്ളുകയാണെങ്കിൽ എന്റെ ഐഡി വർദ്ധിക്കുന്നത് കാണാം ഡിപ്ലിഷൻ തരം MOSFET ഇത് ഉൾക്കൊള്ളുന്നു അതിനാൽ ഈ സാഹചര്യത്തിൽ ഡിപ്ലിഷൻ തരം മോസ്ഫെറ്റിനായി ഒരു ഡ്രെയിൻ ട്രാൻസ്ഫർ സവിശേഷതകൾ വരയ്ക്കാൻ ഞാൻ താൽപ്പര്യപ്പെടുന്നെങ്കിൽ എനിക്ക് ഇത് എങ്ങനെ വരയ്ക്കാം ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്നു വിജിഎസ് 0 വോൾട്ട് ആണ് എനിക്ക് ഇതിനകം തന്നെ വർദ്ധിച്ചുവരുന്ന വിഡിഎസ് ഉണ്ട് വിഡിഎസ് വർദ്ധിക്കുമ്പോൾ ഐഡിയുടെ വർദ്ധനവ് ഞാൻ കാണും നിങ്ങൾ ഇവിടെ കാണുന്നത് പോലെ വിജിഎസ് 0 വോൾട്ടിന് തുല്യമാണെന്ന് നമുക്ക് പരിഗണിക്കാം അതിനർത്ഥം ഞങ്ങൾ ഈ ലൈൻ പരിഗണിക്കേണ്ടതുണ്ട് കൂടാതെ വിജിഎസ് 0 വോൾട്ട് ആയിരിക്കുമ്പോൾ ഇതിനകം തന്നെ ഒരു കറൻറ് ഒഴുകുന്നുണ്ടെന്ന് നിങ്ങൾ കാണുന്നു അതിനാൽ എനിക്ക് 0 വോൾട്ടിൽ കുറവുള്ള വിജിഎസ് ഉണ്ടെങ്കിൽ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതുപോലെ എന്റെ കറന്റ് കുറയാൻ തുടങ്ങും സാച്ചുറേഷൻ IDSS നേരത്തെയെത്തുന്നതും വിജിഎസ് 6 വോൾട്ടിൽ നിങ്ങൾക്ക് കാണാം പക്ഷേ ഞാൻ വിജിഎസ് 0 വോൾട്ട് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ എന്തുചെയ്യും ഞങ്ങൾ ചർച്ച ചെയ്തതുപോലെ വിജിഎസ് 0 വോൾട്ട് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നിലവിലുള്ളത് ഇനിയും വർദ്ധിക്കുന്നത് നമുക്ക് കാണാം ഐഡി ഇപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനർത്ഥം എന്റെ IDSS പരമാവധി കറന്റല്ല കാരണം ഞാൻ എന്റെ VDS 0 വോൾട്ട് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നിലവിലെ ID വർദ്ധിക്കുന്നതായി എനിക്ക് ഇപ്പോഴും കാണാൻ കഴിയും അതിനാൽ നമ്മൾ ഇവിടെ കാണുന്നത് ഐഡി വേഴ്സസ് വിഡിഎസാണ് ഡ്രെയിൻ സവിശേഷതകൾ ആണ് ഇവിടെ ID വേഴ്സസ് VGS ട്രാൻസ്ഫർ സ്വഭാവസവിശേഷതകളാണ് ഐഡി വേഴ്സസ് VGS നിശ്ചിത വിഡിഎസിനായിരിക്കും നിശ്ചിത VDക്ക് അതിനാൽ നമുക്ക് ട്രാൻസ്ഫർ സവിശേഷതകൾ വരയ്ക്കാം ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഞാൻ ചെയ്യേണ്ടത് ഞാൻ ഒരു x y പ്ലോട്ട് ഇതുപോലെ വരയ്ക്കും ഞാൻ എന്തു ചെയ്യും ഇത് 0 വോൾട്ട് ആണെങ്കിൽ ഇത് 1 ആണെങ്കിൽ ഈ ദിശയിൽ ഞാൻ എന്റെ മൂല്യം രേഖപ്പെടുത്തും ഇത് 6 ആണ് ഇത് എന്താണ് ഇവിടെ എന്താണ് ഐഡി ഇതാ അതിനാൽ ഞാൻ എന്താണ് എഴുതുക 6 5 4 മുതൽ 1 വരെ ഞാൻ സമാനമായ വോൾട്ടേജുകൾ പ്രയോഗിച്ചതിനാൽ ഈ പ്ലോട്ടിൽ സമാനമായ വിജിഎസ് പ്രയോഗിച്ചു അതിനാൽ ഞങ്ങൾ ഇവിടെ എഴുതുന്ന വോൾട്ടേജുകളെല്ലാം x അക്ഷത്തിൽ നിങ്ങൾ കാണുന്നു ഇപ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ നമുക്ക് ഇത് ചെയ്യണം കാരണം ഇത് ഐഡിയാണ് അതിനാൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇതുപോലുള്ള ഈ ഐഡി മൂല്യങ്ങൾ ഞങ്ങൾ ഇതുമായി ബന്ധിപ്പിക്കണം ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് VDS സ്ഥിരാങ്കത്തിനായുള്ള കറന്റിനായി ഇവിടെ മൂല്യം എന്താണ് VDS സ്ഥിരമാണെന്ന് നമുക്ക് പറയാം ഇപ്പോൾ നമുക്ക് പരിഗണിക്കാം 6 കാരണം 6 കറന്റ് 0 ആണ് അതിനാൽ എനിക്ക് 5 ന്റെ കറന്റ് നമുക്ക് 1 എന്ന് പറയാം ഞാൻ ഇവിടെ ഒരു നക്ഷത്രം അടയാളം ഇടുന്നു അപ്പോൾ 2 പിന്നെ 3 എന്നിട്ട് കറന്റ് 4 കറന്റ് കൂടുതലാണെന്നും 0 ന് ഉയർന്നതാണെന്നും പറയാം 1 ന് എന്റെ കറന്റ് ഇവിടെ എവിടെയോ ഉണ്ടെന്ന് എനിക്ക് കാണാം ഈ മൂല്യം 8 മില്ലിയാംപെയറുമാണെന്ന് പറയട്ടെ പിന്നെ ഞാൻ കാണുന്നത് ഈ അക്ഷത്തിൽ എനിക്ക് പോയിന്റുകളുണ്ട് ഈ പ്രത്യേക വിജിഎസ് മൂല്യത്തിന്റെ നിലവിലെ മൂല്യം എന്താണ് അതിനാൽ ഇവിടെ എന്റെ പ്ലോട്ട് ഐഡി വേഴ്സസ് വിജിഎസാണ് ഐഡി വേഴ്സസ് വിജിഎസ് അങ്ങനെ എനിക്ക് ഡ്രെയിൻ സവിശേഷതകൾ ID versus VDS അറിയാമെങ്കിൽ ട്രാൻസ്ഫർ സവിശേഷതകൾ വരയ്ക്കാൻ കഴിയും അതായത് വിവിധ VGS മൂല്യത്തിലുള്ള ഡ്രെയിൻ സവിശേഷതകൾ അറിയാമെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ സവിശേഷതകൾ വളരെ എളുപ്പത്തിൽ വരയ്ക്കാം ഞാൻ പറയുന്നത് ID versus VDS എനിക്കറിയാമെങ്കിൽ VDS വ്യത്യസ്ത മൂല്യങ്ങൾക്കായി VGSന്റെ വ്യത്യസ്ത മൂല്യത്തെ എങ്ങനെ കാണുന്നുവെന്നതാണ് ഒരേ വിഡിഎസിനായി വിജിഎസിനെതിരെയുള്ള ഐഡി പ്ലോട്ട് ചെയ്യുന്നത് വളരെ എളുപ്പമാണ് അതിനാൽ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഇവിടെ പ്രശ്നം ചാലക മേഖലയിലാണ് ചാലക മേഖലയിൽ വൈദ്യുതധാരയുടെ നിരക്ക് ഒരു ഡിപ്ലിഷൻ തരം MOSFET ന്റെ നിലവിലെ നിരക്ക് എൻഹാൻസ്മെൻറ് തരം MOSFET നേക്കാൾ മന്ദഗതിയിലാണ് ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്നത് ഒരു ചോദ്യമാണ് അതിനാൽ പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്ന് നാം കണ്ടെത്തണം ഞാൻ എന്റെ മോസ്ഫെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ 1 എന്റെ ഡിപ്ലിഷൻ മോസ്ഫെറ്റ് 2 എന്നത് എന്റെ എൻഹാൻസ്മെൻറ് മോസ്ഫെറ്റ് കൂടാതെ ചാലക മേഖല ട്രയോഡിൽ ചാലക മേഖലയിൽ എന്റെ നിലവിലെ മാറ്റത്തിന്റെ നിരക്ക് അത് എന്റെ മാറ്റത്തിന്റെ നിരക്കാണ് അതിനാൽ dd കറന്റ് മാറ്റുന്നതിന്റെ നിരക്ക് ഞാൻ എൻഹാൻസ്മെൻറ് ഉപയോഗിക്കുന്നതിനേക്കാൾ ഡിപ്ലിഷൻ തരം ഉപയോഗിക്കുമ്പോൾ കുറയുന്നു അത് ശരിയാണോ അതോ തെറ്റാണോ അതിനാൽ നമുക്ക് അത് പരിഹരിക്കാം ഡിപ്ലിഷൻ മോസ്ഫെറ്റ് IDയുടെ സമവാക്യം ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ID IDSS 1 VGSVp2 എൻഹാൻസ്മെൻറ് തരം മോസ്ഫെറ്റ് ആണെങ്കിൽ എന്റെ നിലവിലെ IDയുടെ സമവാക്യം ഇതായിരിക്കും ID K 2 ഇതിന്റെ ഒന്നിൻറെ ഡെറിവേഷൻ നമ്മൾ കാണും ബാക്കി നിങ്ങൾ സ്വയം ചെയ്യാൻ ശ്രമിക്കണം അതിനാൽ ഞാൻ ഫോർമുല അറിഞ്ഞുകഴിഞ്ഞാൽ ID IDSS 1 VGS Vp 2 ഒപ്പം ID K 2 അപ്പോൾ ഇവിടെ സ്ഥിരാങ്കം എന്താണ് ഇവിടെ എന്റെ സ്ഥിരാങ്കം IDSS ഉം Vp ഉം ആണ് എന്റെ സ്ഥിരാങ്കം K VT കാരണം ഇവിടെ IDSS സ്ഥിരമാണ് നിങ്ങൾക്ക് അത് അറിയാം ഇവിടെ പിഞ്ച് ഓഫ് വോൾട്ടേജ് സ്ഥിരമാണ് നിങ്ങൾക്ക് അതും അറിയാം ഇവിടെ K സ്ഥിരമാണ് നമുക്കറിയാം ഇവിടെ ത്രെഷോൾഡ് വോൾട്ടേജ് സ്ഥിരമാണ് അതും നമുക്കറിയാം അതിനാൽ ഈ സാഹചര്യത്തിൽ ഞാൻ ഡെറിവേഷൻ ചെയ്താൽ മാറ്റത്തിന്റെ നിരക്ക് കാണാൻ എനിക്ക് കാണാൻ കഴിയും അതിനാലാണ് എനിക്ക് ഡെറിവേഷൻ ചെയ്യേണ്ടിവന്നത് ഈ സമവാക്യം ഒന്ന് എന്ന് രേഖപ്പെടുത്തുക ഈ സമവാക്യ നമ്പർ 2 എന്ന് നമുക്ക് പറയാം IDSS സ്ഥിരമാണ് സമവാക്യം ഒന്നിൽനിന്ന് dID dVGS കണ്ടുപിടിക്കുക dID dVGS 1 VGS Vp 2 അതിനാൽ നമുക്ക് ആദ്യം ഈ വശം കാണാം ആദ്യം ഇടത് വശത്ത് അതിനാൽ അത് ഇവിടെ നമുക്ക് അനുമാനിക്കാം 1 VGS VpS അങ്ങനെയാണെങ്കിൽ dIDdVGS 2IDSS dS dVGS കാരണം ഈ മൂല്യം ഞങ്ങൾ പരിഗണിച്ചു 1 VGS Vp S ഞങ്ങൾക്ക് 2S dS dVGS അല്ലാതെ മറ്റൊന്നാകാൻ കഴിയാത്ത dS2 dVGS ഉണ്ടായിരിക്കാം തുടർന്ന് നിങ്ങളുടെ IDSS ഉണ്ട് നിങ്ങൾക്ക് എസ് 2 ന്റെ ഈ വ്യുൽപ്പത്തി ഉള്ളപ്പോൾ 2S dID dVGS ഇത് ലളിതമായ ഒരു ഡെറിവേഷൻ മാത്രമാണ് അതിലൂടെ ഞങ്ങൾക്ക് ഈ സൂത്രവാക്യം ലഭിക്കും അത് നിങ്ങളുടെ മുൻപിൽ ഇതാ കാണുന്നു dIDdVGS 2SIDSS dSdVGS അതിനാൽ ഈ സൂത്രവാക്യം ഉപയോഗിച്ച് ഞാൻ S ന്റെ മൂല്യം മാറ്റിസ്ഥാപിക്കുകയാണെങ്കിൽ അത് ഒന്നുമല്ല 1 VGS V p ആണ് അതിനാൽ ഞാൻ ഇവിടെ S ന്റെ മൂല്യം മാറ്റിസ്ഥാപിക്കുകയാണെങ്കിൽ 1 VGS V p എനിക്ക് ഈ പ്രത്യേക ഫോർമുല ലഭിക്കും ഇപ്പോൾ 1 ന്റെ ഡെറിവേഷൻ 0 ഉം എന്റെ dVGS Vp 1 Vp ഉം ആയിരിക്കും ഈ സമവാക്യം ഞാൻ കൂടുതൽ പരിഹരിച്ചാൽ എന്റെ പക്കലുള്ളത് dIDdVGS 2IDSS ഇപ്പോൾ നിങ്ങൾ ഇവ രണ്ടും ഗുണിച്ചാൽ നിങ്ങൾക്ക് Vp 2 ലഭിക്കും VGS Vp ഇപ്പോൾ ഇവിടെ സ്ഥിരാങ്കം എന്താണ് IDSS സ്ഥിരമാണെന്നും Vp സ്ഥിരമാണെന്നും ഞങ്ങൾക്കറിയാം അതിനാൽ നമുക്ക് സ്ഥിരമായ മൂല്യം നൽകാം ഈ പ്രധാന സെറ്റ് ഈ പ്രത്യേക മൂല്യം സ്ഥിരമാണ് 2 സ്ഥിരമാണ് IDSS Vp 2 സ്ഥിരമായിരിക്കും VGS Vp Vp വീണ്ടും സ്ഥിരമായിരിക്കും അതിനാൽ ഞാൻ C ഒരു സ്ഥിരാങ്കമായി എഴുതുന്നു അത് വീണ്ടും ഒരു സ്ഥിരമാണ് അതിനാൽ അപചയ മേഖലയ്ക്കുള്ള എന്റെ സമവാക്യം CVGS - C ഇതാണ് എന്റെ സമവാക്യം എന്തിനുവേണ്ടി ഡിപ്ലിഷൻ തരം മോസ്ഫെറ്റും ചാലക മേഖലയിലെ 2 ഉം നിലവിലെ മാറ്റത്തിന്റെ സമവാക്യം ഇപ്പോൾ MOSFET എൻഹാൻസ്മെൻറ് തരത്തിൽ നിലവിലുള്ള മാറ്റത്തിന്റെ നിരക്ക് അല്ലെങ്കിൽ നിലവിലെ മാറ്റം എങ്ങനെ സംഭവിക്കുന്നുവെന്ന് ഞാൻ കണ്ടു വർദ്ധനയുടെ മാറ്റം എങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ കാണും അതിനാൽ സ്ലൈഡിന്റെ വലതുഭാഗവും രണ്ടാം പകുതിയും 2 എന്ന സമവാക്യത്തെ പരിഗണിക്കാം ഇപ്പോൾ ഞങ്ങൾ ഈ പ്രത്യേക വശം പരിഗണിക്കും അതിനാൽ നമുക്ക് ആരംഭിക്കാം എൻഹാൻസ്മെൻറ് തരം MOSFET ൽ നിലവിലെ ഐഡി K തവണ VGS മൈനസ് VT മുഴുവൻ സ്ക്വയറാണ് ഇവിടെ Kയും VTയും സ്ഥിരമാണ് അതിനാൽ ഞാൻ എന്റെ ഡെറിവേറ്റീവ് ആരംഭിക്കുകയാണെങ്കിൽ dID dVGS K d dVGS 2 ഇപ്പോൾ ഞാൻ കരുതുകയാണ് VGS VT m അപ്പോൾ എനിക്ക് ഉണ്ടാകും dID dVGS 2 Km dm dVGS വീണ്ടും സമാനമായത് dm2 dVGS 2mdmdVGS ഇതാണ് ഞങ്ങൾ ഇവിടെ എഴുതിയത് K അവിടെയുണ്ട് ഞങ്ങൾ K യും മാറ്റിസ്ഥാപിച്ചു ഇപ്പോൾ ഇത് ലഭിച്ചുകഴിഞ്ഞാൽ ഞാൻ വീണ്ടും m ന്റെ മൂല്യം മാറ്റിസ്ഥാപിക്കും അതിനാൽ m ന്റെ മൂല്യം ഞാൻ മാറ്റിസ്ഥാപിക്കുമ്പോൾ എനിക്ക് 2K ഉണ്ടാകും m എന്താണ് VGS VT അതിനാൽ 2K ddVGS ഞാൻ ഇത് പരിഹരിക്കുമ്പോൾ എനിക്ക് കിട്ടും 2K ഇപ്പോൾ ddVGS 1 0 ഇവിടെ എന്റെ മൂല്യം സ്ഥിരമല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ അത് രണ്ട് സ്ഥിരാങ്കം ഗുണിക്കുന്നത് പോലെ ആണ് അത് സ്ഥിരാങ്കം പോലെ എഴുതപ്പെടുന്നു കാരണം k സ്ഥിരാങ്കം 2 ആണ് VGS VT VT സ്ഥിരമാണ് അതിനാൽ എനിക്ക് ഈ മൂല്യമുണ്ട് dID dVGS C VGS - C ഇതാണ് ഞാൻ ഉരുത്തിരിഞ്ഞത് ഇത് എൻഹാൻസ്മെൻറ് തരത്തിനുള്ളതാണ് ഇതുതന്നെയാണ് ഡിപ്ലിഷൻ തരത്തിനുള്ളതും അതിനാൽ ഞാൻ കണ്ടെത്തുന്നത് ചാലക മേഖലയിൽ ഡിപ്ലിഷൻ തരം MOSFETന്റെ കറണ്ട് നിരക്ക് എൻഹാൻസ്മെൻറ് തരം MOSFET ന് തുല്യമാണ് അതായത് ചാലക മേഖലയിൽ ഡിപ്ലിഷൻ തരം MOSFETന്റെ കറണ്ട് നിരക്ക് എൻഹാൻസ്മെൻറ് തരം MOSFETനേക്കാൾ കൂടുതലോ കുറവോ മറിച്ച് തുല്യമാണ് അതിനാൽ ഈ പ്രസ്താവന തെറ്റാണ് ഇങ്ങനെ നമുക്ക് എൻഹാൻസ്മെൻറ് തരം മോസ്ഫെറ്റിലെ കറൻറ് മാറ്റത്തിന്റെ നിരക്ക് ഡിപ്ലിഷൻ തരം MOSFETന്റെ നിരക്കിനേക്കാൾ വ്യത്യസ്തമാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാനാകും അതിനാൽ ഞാൻ സ്വഭാവസവിശേഷതകൾ കാണിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ വീണ്ടും സഹായിക്കാൻ മാത്രമാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം V D saturation VGS VT ഈ പ്ലോട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഐഡി നിങ്ങൾക്ക് ഏതാണ്ട് ഒരു നേർരേഖ ആയി കാണാനാകും തുടർന്ന് VDSനൊപ്പം ചാനൽ പ്രതിരോധം കൂടുന്നതിനനുസരിച്ച് കർവ് വളയുന്നു ഇത് VDSസാച്ചുറേഷൻ അല്ലാതെ മറ്റൊന്നുമല്ല ഈ പ്രദേശം നിങ്ങളുടെ ട്രയോഡ് മേഖലയാണ് ചാനൽ പിഞ്ച്ഓഫ് ചെയ്തതിനാൽ നിലവിലെ സാച്ചുറേറ്റുകൾ പൂരിതം ആകും അതിനാൽ ഇതാണ് പിഞ്ച് ഓഫ് വോൾട്ടേജ് ഇവിടെ സാച്ചുറേഷൻ മേഖല VDS VGS VT അതിനാൽ ഈ പ്രത്യേക പ്ലോട്ട് ഞാൻ കാണുമ്പോൾ ഓൾ ഒരു സോഴ്സും ഒരു ചാനലും ഒരു ഡ്രെയിനും ഉണ്ടെന്ന് എനിക്ക് കാണാം ചാർജിന്റെ രൂപവത്കരണമുണ്ട് വേഗത മറ്റൊന്നുമല്ല dxdt ഇതാണ് എന്റെ x വേഗത dx dt ആണ് അതായത് E dvdx ഇവിടെ ഇത് എന്റെ വോൾട്ടേജ് v ആണ് ഇതും ഇത് എന്റെ dv ആയിരിക്കും അതിനാൽ എനിക്ക് വോൾട്ടേജ് പ്ലോട്ട് വരയ്ക്കാനും ചാനൽ എങ്ങനെ രൂപപ്പെടുന്നുവെന്ന് കാണാനും ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് വേഗത കണ്ടെത്താൻ കഴിയും എനിക്ക് ചാർജ് കാണാൻ കഴിയും ഇലക്ട്രിക് ഫീൽഡ് ചെയ്തത് എന്താണെന്നും എനിക്ക് കാണാൻ കഴിയും അങ്ങനെയാണ് ഒരു മോസ്ഫെറ്റിന്റെ VDS VS ID നേടാൻ കഴിയുന്നത് എൻഹാൻസ്മെൻറ് തരം MOSFET ന്റെ ചിഹ്നം നിങ്ങൾക്ക് വീണ്ടും കാണാൻ കഴിയും അതുപോലെതന്നെ ഡിപ്ലിഷൻ തരം മോസ്ഫെറ്റ്യും ചിഹ്നം കാണാം എന്നാൽ നിങ്ങൾ ഇവിടെയും എൻഹാൻസ്മെൻറ് തരം MOSFETൽ ഡ്രെയിനും ഉറവിടവും തമ്മിൽ ഒരു ഇടവേളയുണ്ടെന്ന് നിങ്ങൾ കാണുന്നു കാരണം മോസ്ഫെറ്റിന്റെ തുടക്കത്തിൽ ഒരു ചാനലും ഇല്ല എന്നതാണ് നിങ്ങൾ ഒരു എൻഹാൻസ്മെൻറ് തരം മോസ്ഫെറ്റ് എടുക്കുമ്പോൾ ചാനലൊന്നുമില്ല എന്നാൽ ഡിപ്ലിഷൻ തരം MOSFETൽ ചാനലിന്റെ രൂപവത്കരണവും ആരംഭവും ഉണ്ട് അതിനാലാണ് ഞങ്ങൾക്ക് ഈ പ്രത്യേക ലൈൻ കാണാൻ കഴിയുന്നത് അതിനാൽ നമുക്ക് ഒരു ഉദാഹരണം കൂടി ചെയ്യാം തുടർന്ന് ഞങ്ങൾ ഈ പ്രത്യേക മൊഡ്യൂൾ പൂർത്തിയാക്കുകയും അതേ പ്രഭാഷണത്തിന്റെ അടുത്ത മൊഡ്യൂളിൽ തുടരുകയും ചെയ്യും അതിനാൽ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ VT നിർണ്ണയിക്കുക അതായത് ചില മൂല്യത്തിന്റെ K യുടെ ത്രെഷോൾഡ് വോൾട്ടേജ് ചില മൂല്യത്തിന് വിജിഎസിനൊപ്പം ഐഡിയുടെ ചില മൂല്യങ്ങൾ എന്നിവ കണ്ടുപിടിക്കുക അതിനാൽ ആദ്യം നമ്മൾ മനസിലാക്കേണ്ടത് വിജിഎസ് അതിന്റെ 4 വോൾട്ടുകളിൽ ഐഡി അതിന്റെ 3 5 മില്ലിയാംപെയറിൽ അതിനർത്ഥം ഇത് എന്റെ എൻഹാൻസ്മെൻറ് തരം MOSFET അല്ലാതെ മറ്റൊന്നുമല്ല എൻഹാൻസ്മെൻറ് തരം MOSFET ന് ട്രയോഡ് മേഖലയ്ക്കുള്ള സമവാക്യം എനിക്കറിയാം ID 2K VD - VDS 2 2 അതായത് ട്രയോഡ് മേഖലയ്ക്കുള്ള എന്റെ സമവാക്യമാണിത് സാച്ചുറേഷൻ മേഖലയെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം VDS VGS VT അതിനാൽ വിഡിഎസിന്റെ ഈ മൂല്യം ഈ പ്രത്യേക സമവാക്യത്തിലേക്ക് ഞാൻ മാറ്റി സ്ഥാപിച്ചാൽ എനിക്ക് എന്ത് ലഭിക്കും രണ്ടിലേക്ക് ഒന്ന് സ്ഥാപിക്കുകയാണെങ്കിൽ ID K 2 ഇപ്പോൾ എനിക്ക് ഇതിനകം ഐഡി ഉണ്ട് എന്താണ് ഐഡി 5 മില്ലി ആമ്പിയർ ആണ് ഇത് ഇതിനകം ഇവിടെ നൽകിയിട്ടുണ്ട് എനിക്ക് വിജിഎസ് വോൾട്ട് ഉണ്ട് വിടി ഞാൻ കണ്ടെത്തി കെ യും നൽകിയിട്ടുണ്ട് 0 4 10 3 A V2 ഇതെല്ലാം നൽകിയിരിക്കുന്നു അതിനാൽ ഞാൻ മൂല്യം മാറ്റിസ്ഥാപിക്കുകയാണെങ്കിൽ 3 5 എന്നത് ഈ മൂല്യത്തിന് തുല്യമാണ് അപ്പോൾ എനിക്ക് ഈ പ്രത്യേക സമവാക്യം ലഭിക്കും 75 V2 2 2 95 4 VT അതിനാൽ ഈ പ്രത്യേക സമവാക്യത്തിന്റെ സ്ക്വയർ റൂട്ട് ഞാൻ എടുക്കുകയാണെങ്കിൽ എനിക്ക് ഉണ്ടായിരുന്നു 2 95 4V VT അപ്പോൾ എനിക്ക് ഉണ്ട് VT 1 05 volts അതിനാൽ എനിക്ക് ഏതുതരം മോസ്ഫെറ്റ് ഉണ്ടെന്ന് എനിക്കറിയാമെങ്കിൽ എനിക്ക് വിടി കണ്ടെത്താനാകും കാരണം സാച്ചുറേഷൻ മേഖലയിൽ എനിക്കറിയാം VDS VGS VT ട്രയോഡ് മേഖല ഇതാണ് സമവാക്യം ഞാൻ ഈ സമവാക്യം മാറ്റിസ്ഥാപിക്കുന്നു ഒപ്പം ഡ്രെയിൻ കറന്റിനായി എനിക്ക് ഒരു സമവാക്യം ഉണ്ടാകും ഡ്രെയിൻ കറന്റിന്റെ സമവാക്യത്തിൽ എല്ലാം നൽകിയിരിക്കുന്നു ഐഡി നൽകി വിഡി നൽകി കെ നൽകി വിജിഎസ് നൽകി എനിക്ക് ത്രെഷോൾഡ് വോൾട്ടേജ് വിടി കണ്ടെത്തണം ഈ പ്രത്യേക മൊഡ്യൂളിനുള്ള അവസാന സ്ലൈഡ് ഇതാണ് അടുത്ത മൊഡ്യൂളിൽ ഞങ്ങൾ തുടരുകയും മോസ്ഫെറ്റിന്റെ കൂടുതൽ ആപ്ലിക്കേഷൻ കാണുകയും ചെയ്യും അതിനാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്താണ് ഡിപ്ലിഷൻ തരം മോസ്ഫെറ്റ് ഡ്രെയിൻ സ്വഭാവസവിശേഷതകൾ എന്താണെന്ന് നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി ചാലക മേഖലയിലെ കറന്റ് മാറ്റത്തിന്റെ തോത് ഡിപ്ലിഷൻ തരം മോസ്ഫെറ്റ്ലും എൻഹാൻസ്മെൻറ് തരം മോസ്ഫെറ്റ്ലും സമാനമോ വ്യത്യസ്തമോ എന്നതിന്റെ ഒരു ഉദാഹരണം ഞങ്ങൾ കണ്ടു രണ്ടും തുല്യമാണെന്ന് ഞങ്ങൾ കണ്ടെത്തി ത്രെഷോൾഡ് വോൾട്ടേജ് നിർണ്ണയിക്കുന്നതിനുള്ള ഒരു ഉദാഹരണം ഞങ്ങൾ കണ്ടു അതിനാൽ അടുത്ത സ്ലൈഡുകളിൽ അടുത്ത മൊഡ്യൂളുകളിൽ ഞങ്ങൾ എന്താണ് നോക്കുന്നത് വോൾട്ടേജ് സ്വഭാവസവിശേഷതകളിലേക്കുള്ള മോസ്ഫെറ്റ് കറന്റ്ൻറെ ഉരുത്തിരിയൽ ഞങ്ങൾ പരിശോധിക്കും ചാനൽ ദൈർഘ്യ മോഡുലേഷൻ എന്താണ് തുടർന്ന് നിങ്ങളുടെ നിലവിലെ മിററായ ഈ മോസ്ഫെറ്റിന്റെ പ്രധാന ആപ്ലിക്കേഷനിലേക്ക് ഞങ്ങൾ നീങ്ങും അതിനാൽ അതുവരെ നിങ്ങൾ പ്രഭാഷണത്തിലൂടെ കടന്നുപോവുക മോസ്ഫെറ്റിനെ എൻഹാൻസ്മെൻറ് തരം മോസ്ഫെറ്റ് മായി താരതമ്യപ്പെടുത്തുമ്പോൾ MOSFET എന്ന അപചയം എങ്ങനെ ഉപയോഗിക്കാമെന്ന് വീണ്ടും വായിക്കുക എൻഹാൻസ്മെൻറ് തരത്തിൽ അപ്ലിക്കേഷൻ വളരെ ലളിതമാണ് ചാനലൊന്നുമില്ല ഡിപ്ലിഷൻ തരത്തിൽ ഒരു ചാനൽ ഉണ്ട് ചാനൽ ഇല്ലാത്തപ്പോൾ എനിക്ക് ഇലക്ട്രോൺ ആകർഷിക്കണമെങ്കിൽ പോസിറ്റീവ് ഗേറ്റ് പ്രയോഗിക്കേണ്ടതുണ്ട് അതിനാലാണ് ഗേറ്റ് പോസിറ്റീവ് അതായത് ഞാൻ വിജിഎസ് വർദ്ധിപ്പിക്കുമ്പോൾ എന്റെ കറന്റ് വർദ്ധിക്കാൻ തുടങ്ങും ഈ സാഹചര്യത്തിൽ പക്ഷേ ഇതിനകം ചാനൽ ഉണ്ട് അതിനാൽ ഡിപ്ലിഷൻ തരം മോസ്ഫെറ്റ് ഇൽ വിജിഎസ് 0 ൽ പോലും ഉറവിടത്തിനും ഡ്രെയിനിനുമിടയിൽ ഒരു ചാനൽ ഉണ്ട് അതിനാൽ വിജിഎസ് 0 ഇപ്പോഴും ഞാൻ ഐഡി കാണുന്നു ഞാൻ ഈ വിജിഎസ് കുറയ്ക്കുകയാണെങ്കിൽ നിലവിലുള്ള ഐഡിയിൽ കുറവുണ്ടാകും പക്ഷേ ഞാൻ വിജിഎസ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് ഐഡിഎസ്എസിനേക്കാൾ കൂടുതലാകാം കാരണം ഐഡിഎസ്എസ് പരമാവധി കറൻറ് അല്ല ഇതുവരെയും ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്താണ് പഠിക്കാൻ കഴിയുക എന്ന് നോക്കാം അതിനാൽ ഞാൻ നിങ്ങളെ അടുത്ത ക്ലാസ്സിൽ കാണും അതുവരെ നിങ്ങൾ ശ്രദ്ധിക്കണം